കോണിക് സെക്ഷൻസ് VIII എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ കോണിക് സെക്ഷൻസിലെ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 16 ലാണ് നിൽക്കുന്നത് ഈ മൊഡ്യൂളിൽ നമ്മൾ കോണിക് വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പ്രത്യേകിച്ചും പരാബോള എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ ടാൻജെന്റും നോർമലും എങ്ങനെ നിർമ്മിക്കാം അവസാന ക്ലാസുകളിൽ ചരിഞ്ഞ അരികുകളിൽ ഒന്നിന് സമാന്തരമായി ഒരു സെക്ഷൻ വരുമ്പോൾ പരാബോള ലഭിക്കുമെന്ന് നമ്മൾകണ്ടു നമ്മൾ പരാബോള നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ ഒരു സെക്ഷൻ ഈ രീതിയിൽ എടുക്കുക അപ്പോൾ നമുക്ക് ഒരു പരാബോള നിർമ്മിക്കാൻ കഴിയും അതിനാൽ അവസാന ക്ലാസ്സിൽ ഫോക്കസ് ഡയറക്ട്രിക്സ് രീതിയും ദീർഘചതുര രീതിയും ഉപയോഗിച്ച് ഒരു പരാബോള എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ടാൻജെന്റ് രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കും ഉദാഹരണത്തിന് 70 മില്ലിമീറ്റർ ബേസ് ഉള്ള ഒരു പരാബോള എങ്ങനെ നിർമ്മിക്കാം ഇതിന്റെ ടാൻജെന്റുകൾ അടിത്തറയുമായി 60⁰ ഉണ്ടാക്കുന്നു നമുക്ക് ഈ ചിത്രം നോക്കാം ഇവിടെ 70 മില്ലീമീറ്ററാണ് ബേസിന്റെ നീളം ടാൻജെന്റുകൾ ഒരു കോണുമായി 60⁰ ഉണ്ടാക്കുന്നു അതുപോലെ സി യിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റ് ടാൻജെന്റും ബി യിലേക്ക് പോകുന്നു ഇതും 60⁰ ഉണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ ബേസ് 70 മില്ലീമീറ്ററും ടാൻജെന്റുകൾ 60⁰ ഉണ്ടാകുകയാണെങ്കിൽ ഈ അവസ്ഥകളെ ഗ്രാഫിക്കലായി തൃപ്തിപ്പെടുത്തുന്ന ഒരു പരാബോള എങ്ങനെ നിർമ്മിക്കാം 8 ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രാഫിക് നിർമ്മാണത്തിന് എ ബി A B പോയിന്റുകൾ അടയാളപ്പെടുത്തുക ഈ രണ്ട് പോയിന്റുകളും 70 മില്ലീമീറ്റർ അകലെയാണ് അതിനാൽ അവ 70 മില്ലീമീറ്റർ അകലെയാണ് പിന്നീട് പ്രൊട്ടക്റ്റർ ഉപയോഗിച്ച് 60⁰ ആംഗിൾ നിർമ്മിക്കുന്ന ഒരു രേഖ വരയ്ക്കുക അതുപോലെ തന്നെ ബി യിൽ നിന്ന് സി പോയിന്റിലേക്ക് ചേരുന്ന മറ്റൊരു രേഖ വരയ്ക്കുക ഇതും ആംഗിൾ 60⁰ ഉണ്ടാക്കണം അത് ചെയ്തുകഴിഞ്ഞാൽ എ മുതൽ സി വരെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക 1 2 3 മുതൽ 9 വരെ സമാന ഭാഗങ്ങൾ ഉണ്ടാക്കുക അതിനാൽ നമ്മൾ ഈ ഭാഗത്ത് 10 തുല്യ ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു അതുപോലെ സി മുതൽ ബി വരെ നമ്മൾ 10 തുല്യ ഭാഗങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു ഈ പോയിന്റുകൾ നിർമ്മിച്ചതിനുശേഷം നമ്മൾ അതിനെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും പേരിടാൻ പോകുന്നു ഇവിടെ ഇതിനെ 1 2 3 4 എന്നിങ്ങനെ 9 എന്നും ഈ ഭാഗത്ത് 1 2 3 4 എന്നിങ്ങനെ 9 എന്നും നാമകരണം ചെയ്യണം അതിനാൽ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും നമ്മൾ തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു പോയിന്റുകൾ അടയാളപ്പെടുത്തിയ ശേഷം ഒരു രേഖ ഉപയോഗിച്ച് ഒന്നാം പോയിന്റും ഒന്നാം പോയിന്റും ചേർക്കുക അതുപോലെ മറ്റൊരു രേഖ ഉപയോഗിച്ച് രണ്ടാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ചേർക്കുക അതുപോലെ 3 മുതൽ 3 വരെ പോയിന്റ് അതുപോലെ 6 മുതൽ 6 വരെ പോയിന്റും ചേർക്കുക അതിനുശേഷം ഈ രേഖകളിലൂടെ കടന്നുപോകുന്ന മിനുസമാർന്ന കർവ് ഉപയോഗിച്ച് ചേർക്കുക അതിനാൽ ഈ കർവ് എല്ലാ വരികളിലും സ്പർശിക്കും ടാൻജെന്റ് രീതി ഉപയോഗിച്ച് നമ്മൾ ഒരു പരാബോള നിർമ്മിക്കുന്ന രീതിയാണിത് നമുക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് വളരെ മിനുസമാർന്ന കർവ് ആയിരിക്കും നമുക്ക് അത് ഷീറ്റിൽ ചെയ്യാം ആദ്യം നമ്മൾ 70 മില്ലീമീറ്റർ ഉള്ള ബേസ് നിർമ്മിക്കണം ഈ ഷീറ്റിൽ ബേസ് വരയ്ക്കാം 70 മില്ലീമീറ്റർ വരുന്ന രേഖ വരയ്ക്കുകയും പോയിന്റ്റുകളെ എ ബി A B എന്നിങ്ങനെ പേര് നൽകുക അതിനുശേഷം പോയിന്റ് എ യിൽ നിന്നും ബി യിൽ നിന്നും 60⁰ കോണിൽ രേഖകൾ വരയ്ക്കുക ഈ ടാൻജെന്റുകൾ 60⁰ ഉണ്ടാക്കുന്നു ഈ രണ്ട് രേഖകളും പോയിന്റ് സി യിൽ കൂട്ടിമുട്ടുന്നു ഇപ്പോൾ ഒരു ചെരിഞ്ഞ ആംഗിൾ ഉപയോഗിച്ച് ഇരുവശത്തും തുല്യ ഡിവിഷനുകൾ ഉണ്ടാക്കുക രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക ഇത് എ മുതൽ സി വരെ ചെയ്യാം അല്ലെങ്കിൽ സി മുതൽ എ വരെയും ചെയ്യാം നമുക്ക് 1 2 3 4 5 6 7 8 9 10 എന്നീ പോയിന്ററുകൾ ലഭിക്കുന്നു ഇപ്പോൾ ഈ പോയിന്റുകൾ ചേർക്കുക അതിനായി സമാന്തര രേഖകൾ വരയ്ക്കാൻ നമുക്ക് ഒരു റോളർ സ്കെയിലർ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ കഴിയും അതിനാൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സംഖ്യകൾ 1 2 3 4 5 6 7 8 9 പോയിന്റുകളാണ് അതുപോലെ ഈ വരി CB യും വിഭജിക്കുക ഇവിടെയും നമുക്ക് 1 2 3 4 5 6 7 8 9 10 എന്നീ പോയിന്ററുകൾ ലഭിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഈ പത്താം പോയിന്റു ബി യിൽ ചേർക്കുക ഈ പോയിന്റുകൾ കൂടി രേഖ വരയ്ക്കാൻ റോളർ സ്കെയിൽ നീക്കുക ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ പോയിന്റുകളെ 1 2 3 4 5 6 എന്ന് നാമകരണം ചെയ്യാം ഇത് ഏഴാമത്തെ പോയിന്റ് ഇത് 8 9 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പോയിന്റ്റും ഒന്നാമത്തെ പോയിന്റ്റും ചേർക്കുക എന്നതാണ് അതുപോലെ 2 ഉം 2 ഉം ചേർക്കുക തുടർന്ന് 3 അതുപോലെ 4 5 പിന്നെ 8 9 മുതലായവ ചേർക്കുക നമുക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് സുഗമമായ കർവായിരിക്കും ലഭിക്കുന്നത് അതിനാൽ ഈ രേഖകളിലൂടെ കടന്നുപോകുന്ന സുഗമമായ ഒരു കർവ് നമ്മൾ നിർമ്മിക്കണം അതിനാൽ നമ്മൾ ഒരു പരാബോള നിർമ്മിക്കുന്ന രീതിയാണിത് ഈ നിർമ്മാണ രേഖകൾ അടയാളപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലംബ രേഖകൾ വരച്ച് അമ്പടയാളങ്ങൾ ഉപയോഗിച്ച് 70 മിമി അടയാളപ്പെടുത്തുക ചെരിവ് 60⁰ ആണ് വരച്ച പരാബോളയിലേക്ക് ഒരു നോർമൽ നിർമ്മിക്കാം ഈ നോർമലുകളും ടാൻജെന്റുകളും നിർമ്മിക്കുന്നതിനുള്ള ഓർഡിനേറ്റ് രീതിയാണ് ജനപ്രിയ രീതി സി മുതൽ കെ വരെ ഒരു ലംബ രേഖ വരയ്ക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് പരാബോളയുടെ വെർട്ടെക്സ് ആണ് ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് ഇതിനെ വി എന്ന് പേരിടാം അതിനുശേഷം നമുക്ക് ഒരു പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കണമെങ്കിൽ ഒരു പോയിന്റ് പി അടയാളപ്പെടുത്തണം ഇവിടെ നമ്മൾ ഒരു നോർമൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിന് ഒന്നാമതായി വെർട്ടെക്സ് ഇൽ നിന്നും 20 യൂണിറ്റ് താഴോട്ട് അടയാളപ്പെടുത്തുക ഇന്റർസെക്ഷൻ പോയിന്റ് പി കണ്ടെത്തുക സി മുതൽ കെ വരെയുള്ള ലംബ രേഖയിൽ മറ്റൊരു പോയിന്റ് എസ് കണ്ടെത്തുക അതിനാൽ ഒന്നാമതായി നമ്മൾ പി എസ് P S എന്നിവ കണ്ടെത്തണം അതിനുശേഷം V മുതൽ S വരെയുള്ള ദൂരം V മുതൽ S വരെയും V മുതൽ T വരെയുമുള്ള ദൂരം കോമ്പസ് ഉപയോഗിച്ച് കണ്ടെത്തുക അങ്ങനെ ഈ പോയിന്റ് ടി കണ്ടെത്തുക അതിനുശേഷം ടി പി T P പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ഒരു രേഖ വരയ്ക്കുക നമ്മൾ ഈ ലൈൻ വിപുലീകരിക്കുകയാണെങ്കിൽ ഇതിനെ ടാൻജെന്റ് രേഖ എന്ന് വിളിക്കുന്നു ടാൻജെന്റ് രേഖ വരച്ചുകഴിഞ്ഞാൽ ആ പോയിന്റിലൂടെ 90⁰ ഇൽ നോർമൽ എളുപ്പത്തിൽ നിർമ്മിക്കാൻ നമുക്ക് കഴിയും ഈ ആംഗിൾ 90⁰ ആയിരിക്കണം ഇത് ഒരു നോർമൽ രേഖയാണ് ഇത് ഒരു ടാൻജെന്റ് രേഖയാണ് ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് നിർമ്മിക്കാം നമുക്ക് ഇത് ഷീറ്റിൽ നോക്കാം നമ്മൾ ഇതിനകം തന്നെ പരാബോള നിർമ്മിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഒരു പോയിന്റ് കണ്ടെത്തുക ഉദാഹരണത്തിന് ഈ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്താം ടാൻജെന്റും നോർമലും നിർമ്മിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ട് ഇപ്പോൾ സി മുതൽ കെ വരെയാണ് ആദ്യ ഘട്ടം നമ്മൾ ഒരു ലംബ രേഖ നിർമ്മിക്കണം നമ്മൾ ലംബമായ ബൈസെക്ടർ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് ചേർക്കാനാകും ബേസ് 70 മില്ലീമീറ്ററാണ് അതിനാൽ നമുക്ക് കർവിൽ 35 മില്ലീമീറ്റർ കണ്ടെത്താൻ കഴിയും ഇവിടെ നിന്ന് ഇവിടെ വരെ 35 ആണ് ഇപ്പോൾ പോയിന്റ് സി പോയിന്റ് കെ യിൽ ചേർക്കുക നമുക്ക് ഈ പോയിന്റിനെ K എന്നും ഇന്റർസെക്ഷൻ പോയിന്റിനെ V എന്നും പേരിടാം ഇപ്പോൾ V ന് താഴെ നമുക്ക് 20 മില്ലീമീറ്റർ പോകണം അവിടെ നമ്മൾ ഒരു തിരശ്ചീന രേഖ വരയ്ക്കാൻ പോകുന്നു പോയിന്റ് 20 മില്ലീമീറ്റർ താഴെയാണ് അതിനാൽ ഞാൻ ഇത് നിർമ്മിക്കാൻ പോകുന്നുവെങ്കിൽ ആ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ഒരു തിരശ്ചീന രേഖ വരയ്ക്കണം അതിനാൽ ഇത് 20 മില്ലീമീറ്ററാണെങ്കിൽ ഈ പോയിന്റ് കണ്ടെത്തുക ഈ പോയിന്റിനെ നമ്മൾ എസ് എന്നും ഈ പോയിന്റിനെ പി എന്നും വിളിക്കുന്നു അടുത്ത പോയിന്റ് നമ്മൾ വി എസ് അടയാളപ്പെടുത്താൻ ഒരു കോമ്പസ് ഉപയോഗിക്കണം അത് ടി എസ് ന് തുല്യമാണ് അതിനാൽ ഈ പോയിന്റിനെ ടി ആയി അടയാളപ്പെടുത്തുക ഇപ്പോൾ ടി പി T P പോയിന്ററുകൾ ചേർക്കുക അതിനായി നമുക്ക് നമ്മുടെ പേനകൾ ഉപയോഗിക്കാം ഇതൊരു ടാൻജെന്റ് രേഖയാണ് പോയിന്റ് പി യിലൂടെ കടന്നുപോകുന്ന നോർമൽ 90⁰ ആണ് അതിനാൽ 90⁰ കണ്ടെത്തുക രേഖയെ പി യിൽ ചേർക്കുക അതിനുശേഷം ഇരുണ്ടതാക്കുക അതിനാൽ ഇത് നോർമൽ ആണ് അതിനാൽ നമുക്ക് ആ രീതിയിൽ ടാൻജന്റും നോർമലും നിർമ്മിക്കാൻ കഴിയും നമുക്ക് ഒരു പോയിന്റ് പി ഉണ്ടെങ്കിൽ അതിലൂടെ ടാൻജെന്റും നോർമലും നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു തിരശ്ചീന രേഖ വരയ്ക്കുക എന്നതാണ് ഇതാണ് തിരശ്ചീന രേഖ നമുക്ക് എസ്' S' എന്ന് വിളിക്കാം എസ് ' S' മുതൽ വി വരെയുള്ള നീളം അളക്കുക അതേ നീളം ഉപയോഗിച്ച് മറ്റ് പോയിന്റ് ടി അടയാളപ്പെടുത്തുക ടി യിൽ പുതിയ പോയിന്റ് ചേർക്കുക ഇനി നമുക്ക് പരാബോളയിലേക്കുള്ള ഡയറക്ട്രിക്സ് ഉം ഫോക്കസ് ഉം കണ്ടെത്താം ഈ പരാബോള നിർമ്മാണത്തിനായി നമ്മൾ ബേസും ടാൻജെന്റുകളും ഉപയോഗിച്ച് പരാബോള നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരു പ്രത്യേക ഘട്ടത്തിൽ ടാൻജെന്റും നോർമലും നിർമ്മിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നീളം TV അളക്കേണ്ടതുണ്ട് അത് VS ന് തുല്യമാണ് അത് അടിസ്ഥാനമാക്കി നമ്മൾ അത് നിർമ്മിച്ചു പരാബോള ഉൽപാദിപ്പിക്കുന്നതും കൃത്യമായി ഫോക്കസ് സ്ഥിതിചെയ്യുന്നതുമായ ഒരു ഡയറക്ട്രിക്സ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം പരാബോള നിർമ്മിച്ച ശേഷം ഒരു പി ക്യൂ രേഖ വരയ്ക്കുക അതിനാൽ പോയിന്റ് പി യിലൂടെ കടന്നുപോകുന്ന ലംബ രേഖ വരക്കുക ഇതാണ് പോയിന്റ് പി ഈ രേഖ പി ക്യു എല്ലായ്പ്പോഴും സി കെ രേഖക്ക് സമാന്തരമായിരിക്കണം ഇത് നിർമ്മിക്കാനുള്ള മാർഗ്ഗം ഇതാണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് പോയിന്റ് കണ്ടെത്തണം ഫോക്കൽ പോയിന്റ് എഫ് ∠QP ∠QPF എന്നിവയെ തുല്യ ഭാഗങ്ങളായ ∠Q P T ∠T P F എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു ഫോക്കസ് പോയിന്റ് കണ്ടെത്താനുള്ള വഴി ഇതാണ് അതിനാൽ ഇതിനകം തന്നെ ഒരു നിർദ്ദിഷ്ട പോയിന്റിൽ നമുക്ക് ടാൻജെന്റ് ഉണ്ട് ഇവിടെ നമ്മൾ ഇതിനകം ടാൻജന്റുകൾ നിർമ്മിച്ചു അതിനാൽ ആദ്യം ഒരു ലംബ രേഖ വരച്ച് ഈ ആംഗിൾ അളക്കുക ആ ആംഗിളിൽ നിന്ന് വീണ്ടും ഫോക്കസ് പോയിന്റിലേക്ക് മറ്റൊരു ആംഗിൾ പുനർനിർമ്മിക്കുക ഇത് നേരിട്ട് അളക്കാവുന്നതാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അല്ലാത്തപക്ഷം ഈ ഫോക്കൽ പോയിന്റ് എഫ് കണ്ടെത്താൻ നമ്മൾ ആംഗിൾ ബൈസെക്ടർ രീതി ഉപയോഗിക്കും അതിനാൽ ഘട്ടം ഘട്ടമായി നമുക്ക് അത് ചെയ്യാം നമുക്ക് അത് നമ്മുടെ ഷീറ്റിൽ ആരംഭിക്കാം ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഇതിനകം പോയിന്റ് പി യിലൂടെ കടന്നുപോകുന്ന ഒരു ടാൻജെന്റ് രേഖ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പി യിലൂടെ ലംബ രേഖ വരയ്ക്കുക അതിനാൽ ഒരു രേഖ വരയ്ക്കാൻ നമ്മളുടെ പ്രൊട്ടക്റ്റർ അല്ലെങ്കിൽ ഒരുപക്ഷേ സെറ്റ് സ്ക്വയറുകൾ ഉപയോഗിക്കാം ഈ പോയിന്റ് കണ്ടെത്തി Q എന്ന് പേരിടുക അതിനാൽ ആദ്യം നമ്മൾ ഇതിനകം കണ്ടെത്തിയ Q ദിശയിലും പോയിന്റ് P ലും ഒരു ലംബ രേഖ വരയ്ക്കണം ഈ ∠Q P T ഇവിടെ എവിടെയെങ്കിലും ഒരു തുല്യ ആംഗിൾ ഉണ്ടാക്കണം അങ്ങനെ നമുക്ക് ഫോക്കൽ പോയിന്റ് കണ്ടെത്താൻ കഴിയും ഇത് ആംഗിൾ ബൈസെക്ടർ പോലെയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ നിർമ്മിച്ചുവെന്ന് നമുക്ക് നോക്കാം ഒരു പോയിന്റ് പി യും ഒരു രേഖയുണ്ടെങ്കിൽ ഒന്നാമതായി ചില തുല്യ ദൂരമുള്ള രണ്ട് ആർക്കുകൾ ഉണ്ടാക്കുക ഇതിൽ നിന്ന് വീണ്ടും ഒരു ആർക് കൂടി ഉണ്ടാക്കുക ഇവിടെ നിന്ന് ഒരു ആർക് കൂടി ഇതിൽ ചേർക്കുക എന്നിരുന്നാലും ഈ പ്രശ്നത്തിൽ നമുക്കുള്ളത് നമുക്ക് ഈ രേഖ ഉണ്ട് ഞാൻ ഇത് Q എന്ന് അടയാളപ്പെടുത്തുക ആണെങ്കിൽ നമുക്ക് പോയിന്റ് P T എന്നിവ അറിയാം ഇപ്പോൾ ഈ രേഖ എഫ് എങ്ങനെ കണ്ടെത്താം എന്നതാണ് ചോദ്യം ഒന്നാമതായി ഒരു ആംഗിൾ ഉണ്ടാക്കുക അവിടെ നിന്ന് Q ൽ നിന്ന് ഒരു ആർക്ക് നിർമ്മിക്കാൻ ശ്രമിക്കുക അതിനാൽ ഉദാഹരണത്തിന് ഈ എഫ് രേഖയോ ആർക്കോ എവിടെ പോകുന്നു എന്ന് മനസിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒന്നാമതായി പി പോയിന്റ് അറിയാം Q കണ്ടെത്തുക അത് ഈ രേഖകളിലൂടെ കടന്നുപോകണം അതിനാൽ ആ രീതിയിൽ ഒരു അർദ്ധവൃത്തമോ പൂർണ്ണ വൃത്തമോ ഉണ്ടാക്കുക ഈ ക്യൂ വിൽ നിന്ന് ആ രീതിയിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക എഫ് കൃത്യമായി എങ്ങനെ വിഭജിക്കാൻ പോകുന്നു എന്നതിനെ ക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകം നമുക്ക് ടി പോയിന്റ് അറിയാം ടി പോയിന്റിൽ നിന്ന് ഒരു കട്ട് ഉണ്ടാക്കുക അതിനാൽ നമ്മൾ അത് മുറിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്ന് ഉണ്ട് ഈ രണ്ട് രേഖകളിലും ഇത് ചേർക്കുക സമാന രീതിയിൽ ഇവിടെ തുല്യ ആംഗിൾ ബൈസെക്ടർ നിർമ്മിക്കാൻ നമ്മൾ പോകുന്നു പി മുതൽ ആദ്യം ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക ഇത് ഈ രേഖകളിൽ എവിടെയെങ്കിലും വിഭജിക്കാൻ പോകുന്നു അതിനാൽ ഒരു സർക്കിൾ വരയ്ക്കുക അത് Q പോയിന്റിൽ വിഭജിക്കാൻ പോകുന്നു മാത്രമല്ല ടാൻജെന്റ് ലൈൻ കടന്നുപോകുന്ന പോയിന്റിൽ നമുക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ ടി യിലൂടെ കടന്നുപോകുന്ന ഒരു ആർക്ക് നിർമ്മിക്കുക പി യിൽ നിന്ന് അടുത്തതായി കുറച്ച് ദൂരം അടയാളപ്പെടുത്തുക ആ സ്ഥാനത്ത് നിന്ന് ദൂരം അടയാളപ്പെടുത്തിയുകഴിഞ്ഞാൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുക ഇത് ഈ രീതിയിൽ ടി പോയിന്റ് വഴി പോകുകയും ടി പോയിന്റ് വഴി ആ വഴിയിലൂടെ കടന്നുപോകുകയും ചെയ്യുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ പോയിന്റ് ടി കണ്ടെത്തുക അതിനാൽ ഈ ഇന്റർസെക്ഷൻ പോയിന്റ് ഇവിടെയുണ്ട് ഇത് കേന്ദ്രബിന്ദുവായിരിക്കണം ഇപ്പോൾ പി പോയിൻറ്റും എഫ് പോയിൻറ്റും ചേർക്കുക ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് നിർമ്മിക്കുന്നത് ഫോക്കസ് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്രിക്സ് എളുപ്പത്തിൽ കണ്ടെത്താനാകും കാരണം പരാബോളയുടെ എസ്സെൻട്രിസിറ്റി ഒന്നാണ് അതിനാൽ എഫ് മുതൽ വി വരെയുള്ള ദൂരം വി മുതൽ ആ സ്ഥാനത്തേക്ക് തുല്യമായിരിക്കും അതിനാൽ നമുക്ക് ഈ പോയിന്റിനെ O എന്ന് വിളിക്കാം ഇപ്പോൾ റോളർ സ്കെയിലർ ഉപയോഗിച്ച് രേഖകൾ വരയ്ക്കുന്നതിന് സമാന്തരമായി നീക്കുക അതിനാൽ ഈ പരാബോളയ്ക്ക് ഇത് ഡയറക്ട്രിക്സ് ആണ് ഫോക്കൽ പോയിന്റ് എഫ് ആണ് ഈ പോയിന്റ് പി ആണ് പരാബോളയ്ക്കായി ഫോക്കസും ഡയറക്ട്രിക്സും നിർമ്മിക്കുന്ന രീതിയാണിത് അടുത്ത ക്ലാസ്സിൽ ഡയറക്ട്രിക്സ് എസെൻട്രിസിറ്റി രീതി ഉപയോഗിച്ച് ഹൈപ്പർബോള എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കും